അതാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് അതിനാൽ ആദ്യ ടേമിന് ഇൻസിഡൻസ് ഫീൽഡ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ ടേമിന് ഇൻസിഡൻസ് ഫീൽഡ് ഇല്ലായിരുന്നു ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് താൽപ്പര്യമുണ്ട് മൊത്തത്തിലുള്ള ലക്ഷ്യം എന്താണ് എന്ന് ഓർക്കുക എനിക്ക് എല്ലായിടത്തും ഫീൽഡ് കണ്ടെത്താൻ എല്ലായിടത്തും ഫീൽഡ് വേണം വിദ്യാർത്ഥി എനിക്ക് ഈ നിബന്ധനകൾ ഇവിടെ അറിയണം അതിനാൽ ∇ϕ1 ഉം ϕ1 ഉം g1 ഉം ∇g1 ഉം ഞാൻ അനുമാനിക്കുകയും ചില ശ്രമങ്ങളിലൂടെ ഞാൻ കണക്കാക്കുകയും ചെയ്തു തൽക്കാലം നമുക്ക് അത് അതേപടി വിടാം അതിനാൽ എനിക്ക് ഈ സമവാക്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് നമുക്ക് പറയാം ഞാൻ ഈ സമവാക്യങ്ങൾ പരിഹരിക്കുന്നു ഞാൻ ഈ സമവാക്യങ്ങൾ പരിഹരിച്ചുകഴിഞ്ഞാൽ എല്ലായിടത്തും ഞാൻ എങ്ങനെ ഫീൽഡ് കണ്ടെത്തും ഇത് എന്നോട് എല്ലായിടത്തും ഫീൽഡിനെക്കുറിച്ച് പറയുമോ ഈ സമവാക്യങ്ങൾ എല്ലായിടത്തും ഫീൽഡ് ഉണ്ടോ ഇല്ലയോ എന്ന് എന്നോട് പറയുമോ വിദ്യാർത്ഥി പറയും അനിയന്ത്രിതമായ സ്ഥലത്ത് ϕ1 ഉം ϕ2 ഉം എന്നിവ എവിടെയാണ് അതുണ്ടോ അതോ അതിർത്തിയിൽ മാത്രമാണോ വിദ്യാർത്ഥി അതിർത്തിയിൽ മാത്രമാണ് അത് അതിർത്തിയിൽ മാത്രമാണ് അതിനാൽ സങ്കൽപ്പിക്കുകയാണെങ്കിലും നമ്മൾ ഈ സമവാക്യം പരിഹരിക്കുമെന്ന് കരുതുക ഇത് നമ്മെ എങ്ങനെ സഹായിക്കും ഞാൻ ഇത് പരിഹരിക്കുകയാണെങ്കിൽ എന്റെ ലക്ഷ്യം നേടിയോ എല്ലായിടത്തും ഫീൽഡ് കണ്ടെത്തുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം നമ്മൾ ആരംഭിച്ച വോളിയം ഇന്റഗ്രലിലേക്ക് മടങ്ങുക വയറിലെ നിലവിലെ വിതരണം നോക്കുക നമ്മൾ അവിടെ ആദ്യം എന്താണ് ചെയ്തത് നമ്മൾ ആദ്യം ചാർജ് ഡെൻസിറ്റി Rho കണ്ടെത്തി തുടർന്ന് ഫീൽഡ് സാധ്യത കണ്ടെത്തുന്നതിന് നമ്മൾ വീണ്ടും എന്തെങ്കിലും മാറ്റിസ്ഥാപിച്ചു അതിനാൽ ഈ 2 സമവാക്യങ്ങൾ എഴുതാൻ ഏത് സിദ്ധാന്തം ഉപയോഗിക്കും എന്നതാണ് നിങ്ങളുടെ സൂചന നമ്മൾ 2 സിദ്ധാന്തങ്ങൾ ചർച്ച ചെയ്യും ഒന്ന് ഹ്യൂഗന്റെ Huygen's തത്വം രണ്ടാമത്തേത് എസ്റ്റിൻഷൻ സിദ്ധാന്തം ഈ 2 സമവാക്യങ്ങൾ ഇതിൽ ഏതാണ് വിദ്യാർത്ഥി എസ്റ്റിൻഷൻ എസ്റ്റിൻഷൻ സിദ്ധാന്തം അതിനാൽ നമ്മൾ എന്താണ് ഉപയോഗിക്കാത്തത് വിദ്യാർത്ഥി ഹ്യൂഗന്റെ Huygen's തത്വം ഹ്യൂഗന്റെ തത്വം നമ്മൾ ഉപയോഗിച്ചില്ല നമ്മളിവിടെ എസ്റ്റിൻഷൻ സിദ്ധാന്തമാണ് എഴുതിയിരിക്കുന്നത് അതിനാൽ നമുക്ക് ഇവിടെയുള്ള എക്സ്പ്രഷനിലേക്ക് മടങ്ങാം ഞാൻ ചുവടെയുള്ള 2 സമവാക്യങ്ങൾ ഉപയോഗിക്കുന്നു അതിനാൽ ഞാൻ ϕ1 ഉം ∇ϕ1 ഉം പരിഹരിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നെങ്കിൽ എല്ലായിടത്തും ഞാൻ എങ്ങനെ ഫീൽഡ് കണ്ടെത്തും എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പറയാമോ വിദ്യാർത്ഥി ഹ്യൂഗന്റെ Huygen's തത്വം ഹ്യൂഗന്റെ Huygen's തത്വം ഉപയോഗിക്കുക കാരണം ഞാൻ ഇത് വിലയിരുത്താൻ എനിക്ക് ഈ സിദ്ധാന്തം ഉപയോഗിക്കാം അത് എല്ലായിടത്തും ϕ2 ഉം ϕ1 ഉം ഉണ്ടെന്ന് പറയും അതിനാൽ എല്ലായ്പ്പോഴും ഒരു അവിഭാജ്യ സമവാക്യങ്ങളിൽ 2 ഘട്ട പ്രക്രിയയുണ്ട് ആദ്യം ഒരു ഇന്റർമീഡിയറ്റ് വേരിയബിൾ മൂല്യനിർണ്ണയം ചെയ്യുക ഈ സാഹചര്യത്തിൽ അത് വയറിലെ ചാർജ് സാന്ദ്രതയായിരുന്നു അത് അതിർത്തിയിൽ ϕ1∇ϕ1 ϕ2∇ϕ2 ആണ് അപ്പോൾ എനിക്ക് ഹ്യൂഗൻസ് തത്വത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും എല്ലായിടത്തെയും ഫീൽഡ് കണ്ടുപിടിക്കാനും പറ്റും അതിനാൽ നമ്മൾ പിന്തുടരുന്ന തന്ത്രം ഇതാണ് എന്ന ഉയർന്ന തലത്തിലുള്ള ചിത്രം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലാത്തപക്ഷം ഗണിതത്തിൽ നഷ്ടപ്പെടുന്നത് എളുപ്പമാണ് അതിനാൽ നമുക്ക് ഇവിടെ തിരികെ പോകാം അതിനാൽ ഞാൻ ഇതിനകം സൂചിപ്പിച്ചതുപോലെ എസ്റ്റിൻഷൻ സിദ്ധാന്തം ഇതായിരുന്നു ഇപ്പോൾ ഈ 2 സമവാക്യങ്ങളിൽ എത്ര വേരിയബിളുകൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എനിക്കെന്താണ് അറിയാത്തത് വിദ്യാർത്ഥി ϕ1 എനിക്ക് ϕ1 അറിയില്ല മറ്റെന്തെങ്കിലും അറിയാത്തതായി ഉണ്ടോ വിദ്യാർത്ഥി ϕ2 ϕ1 അറിയില്ല മറ്റെന്തെങ്കിലും അറിയാത്തതായി ഉണ്ടോ വിദ്യാർത്ഥി∇ϕ1 എനിക്ക് ∇ϕ1 · nˆ ഉം ∇ϕ2 · nˆ ഉം അറിയില്ല അതിനാൽ എനിക്ക് ϕ1 അറിയാമെങ്കിൽ എനിക്ക് ∇ϕ1 കണക്കാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകണം എന്നാൽ അത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഈ സമവാക്യങ്ങളിൽ ∇ϕ ഇല്ലെന്നും ഫൈ മാത്രമാണെന്നും നമുക്ക് അനുമാനിക്കാം ഒരു അവിഭാജ്യ സമവാക്യത്തിനുള്ളിൽ എനിക്ക് ഒരു അജ്ഞാത വേരിയബിൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു വഴി നമ്മൾ കണ്ടു ആ ഒരു വഴി എന്തായിരുന്നു വിവേചനാധികാരവും പരിഹരിക്കലും നമുക്ക് ϕ തരുന്നു എന്നാൽ അത് നിങ്ങൾക്ക് നൽകിയത് വിശകലന രൂപത്തിലാണോ അതോ സംഖ്യാ രൂപത്തിലാണോ വിദ്യാർത്ഥി സംഖ്യാ രൂപത്തിൽ അത് നമുക്ക് ഒരു കൂട്ടം നമ്പറുകൾ നൽകിയിട്ടുണ്ട് നമുക്ക് എങ്ങനെ കൃത്യമായി ഗ്രാഡ് ഫൈ ലഭിക്കും നമുക്ക് പറ്റില്ല അല്ലേ അതിനാൽ ഗ്രേഡ് ഫൈ 1 ഡോട്ട് എൻ ഹാറ്റ് യഥാർത്ഥത്തിൽ നമ്മുടെ രണ്ടാമത്തെ വേരിയബിൾ ആണെന്ന് തോന്നുന്നു എനിക്ക് മറ്റൊന്നിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരാം എനിക്ക് ϕ1 ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ലഭിക്കുക എങ്കിൽ അത് ശരിയാകും എനിക്ക് അതിന്റെ ഗ്രേഡിയന്റ് എടുക്കാം പക്ഷേ എനിക്ക് അത് ഒരു ഫംഗ്ഷൻ ആയി ലഭിക്കുന്നില്ല അപ്പോൾ 4 വേരിയബിളുകളും എത്ര സമവാക്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു വിദ്യാർത്ഥി രണ്ട് 2 സമവാക്യങ്ങൾ അതിനാൽ ചില ബഡ്ജറ്റിംഗ് ശരിയല്ലെന്ന് തോന്നുന്നു 2 സമവാക്യങ്ങളിൽ നിന്നുള്ള 4 വേരിയബിളുകൾ പരിഹരിക്കാൻ എനിക്ക് കഴിയില്ല എന്നാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിർത്തി വ്യവസ്ഥകളെ കുറിച്ചാണ് ഞാൻ ഇതുവരെ അതിർത്തി വ്യവസ്ഥകൾ ശരിയായി ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ വൈദ്യുതകാന്തികത്തിൽ നമ്മൾ പഠിച്ച അതിർത്തി വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ലളിതമായ അതിർത്തി വ്യവസ്ഥകൾ വിദ്യാർത്ഥി ഇ ടാൻജൻഷ്യൽ ശുദ്ധമായ ഉപരിതല പ്രവാഹങ്ങൾ ഇല്ലാത്തിടത്തോളം ടാൻജെൻഷ്യൽ E ഫീൽഡും ടാൻജൻഷ്യൽ H ഫീൽഡും സംരക്ഷിക്കപ്പെടുന്നു ഈ പ്രശ്നത്തിൽ ശുദ്ധമായ ഉപരിതല പ്രവാഹങ്ങളൊന്നുമില്ല കാരണം അത് ഒരു ശുദ്ധമായ ലോഹ വസ്തുവാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് ചില വൈദ്യുതചാലക വസ്തുക്കളെ കുറിച്ച് അറിയാം ഒരു മരക്കഷ്ണം പോലെയോ മറ്റെന്തെങ്കിലും പോലെയോ ആണ് അതിനാൽ ഭൌതികമായി ഉപരിതല പ്രവാഹങ്ങൾ ഇല്ലെന്ന് എനിക്കറിയാം അതിനാൽ Etan1 Etan2 നമുക്ക് അത് എഴുതാം രണ്ടാമത്തെ സമവാക്യം രണ്ടാമത്തെ അതിർത്തി അവസ്ഥ ഇതാണ് വിദ്യാർത്ഥി സാർ വിദ്യാർത്ഥി ഈ സ്കാഡേർഡ് ഫീൽഡ് ഒബ്ജക്റ്റ് വോള്യം V2 വിൽ നിന്ന് നിന്നുള്ളതാണെന്ന് നമുക്ക് കണക്കാക്കാമോ വിദ്യാർത്ഥി അതായത് അത് സ്വയം തുളച്ചുകയറുന്നില്ല ഇല്ല അത് തീർച്ചയായും തുളച്ചുകയറുന്നു അത് അതിന്റെ വൈദ്യുത വസ്തുവിലേക്ക് തുളച്ചുകയറുന്നു അതിന് കുറച്ച് അനുമതിയുണ്ട് അതിനാൽ ഇൻസിഡൻസ് ഫീൽഡ് വസ്തുവിന്റെ ഉള്ളിലേക്ക് പോകും അതിൽ ചിലത് ഉപരിതലത്തിൽ ചിതറിക്കിടക്കും അതിൽ ചിലത് ഉള്ളിലേക്ക് പോയി വീണ്ടും ഉയർന്നുവരും അതിനാൽ ഇത് തികച്ചും സങ്കീർണ്ണമായ അവസ്ഥയാണ് അതിനാൽ അതല്ല എനിക്ക് ഒരു പെർഫെക്റ്റ് മെറ്റാലിക് ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഫീൽഡ് കുതിച്ചുയരുകയേ ഉള്ളൂ അത് ഇതിന്റെ ഒരു പ്രത്യേക സാഹചര്യമാണ് ഈ എപ്സിലോണിന്റെ ചാലകതയെ ഞാൻ ഇൻഫിനിറ്റിയിലേക്ക് നയിക്കുകയാണെങ്കിൽ എനിക്ക് ആ ബന്ധം ലഭിക്കും അത് അഭേദ്യമായ ഒരു വസ്തുവായി മാറും എന്നാൽ ഇപ്പോൾ ഞാൻ അതിനെ ഒരു തുളച്ചുകയറുന്ന വസ്തുവായി കണക്കാക്കുന്നു വിദ്യാർത്ഥി ഇത് ഒരു വൈദ്യുതചാലകമാണ് ഇത് ഒരു വൈദ്യുതചാലകമാണ് അതിന് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും പാർട്ടും ഉണ്ട് അതിനാൽ നമുക്ക് ഈ സമവാക്യങ്ങളിൽ ആദ്യത്തേത് എടുക്കാം അതിനാൽ ഞാൻ ഇത് വീണ്ടും ഇവിടെ വരയ്ക്കണം ഇത് V2 ആണ് ഇതാണ് എന്റെ നിലവിലെ ഉറവിടം അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ അനുമാനങ്ങളിൽ എന്തായിരുന്നു ഞാൻ ഏത് ധ്രുവീകരണത്തിലാണ് പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥി TM ടിഎം ധ്രുവീകരണം ഈ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് വിദ്യാർത്ഥി Ez Ez മാത്രം ശരിയല്ലേ അതിനാൽ യഥാർത്ഥത്തിൽ E എന്നത് Ez zˆ മാത്രമാണ് ഇതു കൂടാതെ നമ്മൾ ഉണ്ടാക്കിയ നൊട്ടേഷനെ ഫൈ എന്ന ചിഹ്നം ഉപയോഗിച്ചാണ് വിളിച്ചത് അത് ഞാൻ എല്ലായിടത്തും പരിഹരിക്കുന്ന വേരിയബിളാണ് അതിനാൽ ഇതൊരു 2D പ്രശ്നമാണെന്ന് ഓർക്കുക ഈ ഒബ്ജക്റ്റ് z ഡൈമൻഷനിൽ അനന്തമായി നീളുന്നു അതിനാൽ ഞാൻ ഇവിടെ 1 പോയിന്റും ഇവിടെ 1 പോയിന്റും എടുത്ത് ഞാൻ ഈ പോയിന്റ് ഇങ്ങോട്ട് നീക്കുകയാണെങ്കിൽ മറ്റേ പോയിന്റ് ഉപരിതലത്തിലേക്ക് കഴിയുന്നത്ര അടുത്ത് നീങ്ങാൻ ഞാൻ ശ്രമിക്കുന്നു ഞാൻ കഴിയുന്നിടത്തോളം നീങ്ങുമ്പോൾ സേവനത്തോട് കഴിയുന്നത്ര അടുത്ത് എന്നാണ് അർത്ഥമാക്കുന്നത് അതിർത്തി വ്യവസ്ഥ എന്താണെന്ന് എനിക്ക് ചോദിക്കാൻ കഴിയും അപ്പോൾ Etan1 ന് അതിർത്തി വ്യവസ്ഥ എന്തായിരിക്കും എസ് അതിർത്തിയിൽ Etan1 Etan2 നെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും ഏത് ദിശയിലാണ് വൈദ്യുത മണ്ഡലം z ദിശയിലാണോ ഈ z ആക്സിസ് വെക്റ്റർ ഈ പ്രതലത്തിലേക്ക് സ്പർശിക്കുന്ന സ്ഥിരാങ്കമാണെന്ന് നിങ്ങൾക്കറിയാമോ അതെ ശരിയാണ് കാരണം ഈ ഒബ്ജക്റ്റ് ഈ പേപ്പറിന്റെയോ ബോർഡിന്റെയോ തലത്തിൽ നിന്ന് അനന്തമായി വ്യാപിക്കുന്നു അതിനാൽ z അക്ഷം ഏത് ബിന്ദുവായാലും z അക്ഷത്തിന് സമാന്തരമായ ഏത് രേഖയും ഉപരിതലത്തിലേക്ക് സ്പർശനാത്മകമാണ് അപ്പോൾ ഈ സമവാക്യം എന്തായി മാറുന്നു വിദ്യാർത്ഥി Ez ϕ1 എസ് ൽ ϕ1r′ ϕ2r′ ആണ് എസ് ൽ ആണ് ഞാൻ ഈ ഇന്റഗ്രൽ ചെയ്യുന്നത് അതിനാൽ ഇപ്പോൾ എനിക്ക് എത്ര വേരിയബിളുകൾ പറയാൻ കഴിയും അതിനാൽ ഇവ രണ്ടും ഘനീഭവിച്ചിരിക്കുന്നു എനിക്ക് ഇതിനെ ചില ഫൈ ആർ പ്രൈമിന് തുല്യമെന്ന് വിളിക്കാം എന്നാൽ എസ് ൽ മാത്രം മറ്റെവിടെയും ശരിയല്ല അതിനാൽ ഇവിടെ നിന്ന് ഞാൻ സംയോജിപ്പിച്ച് ഞാൻ ഒരു വേരിയബിളിലേക്ക് ലയിപ്പിക്കുന്നു അതിനാൽ ഇപ്പോൾ എനിക്ക് മൂന്ന് വേരിയബിളുകൾ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഭാഗം വ്യക്തമായ രണ്ട് സമവാക്യങ്ങൾ അതിനാൽ അടുത്ത സമവാക്യം വേരിയബിളുകളുടെ എണ്ണം കുറയ്ക്കാൻ എന്നെ സഹായിക്കും എന്ന് നിങ്ങൾ ഇപ്പോൾ ഊഹിച്ചിരിക്കുമെന്ന് ഞാൻ അർത്ഥമാക്കുന്നു അതിനാൽ നമുക്ക് ഇപ്പോൾ അത് നോക്കാം രണ്ടാമത്തെ അതിർത്തി അവസ്ഥ Htan1 Htan2 ആയിരിക്കും ഇപ്പോൾ ഇത് അൽപ്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കും എനിക്ക് ഇപ്പോൾ മാഗ്നെറ്റിക് ഫീൽഡ് എങ്ങനെ ലഭിക്കും മാഗ്നെറ്റിക് ഫീൽഡ് ന്റെ സ്പർശന ഘടകത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ ആദ്യം മാഗ്നെറ്റിക് ഫീൽഡ് ന് ഒരു എക്സ്പ്രഷൻ നേടുകയും അതിന്റെ സാധാരണ അല്ലെങ്കിൽ സ്പർശന ഘടകം ശരിയായി എടുക്കുകയും വേണം അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ടാൻജൻഷ്യൽ ഫീൽഡ് എങ്ങനെ ലഭിക്കും മാഗ്നെറ്റിക് ഫീൽഡ് എങ്ങനെ ലഭിക്കും വിദ്യാർത്ഥി ∇ × E→ ∇ × E→ അതിനാൽ നമുക്ക് ∇ × E→ − dBdt − jωμH→ ഉണ്ട് അതാണ് മാക്സ്വെല്ലിന്റെ സമവാക്യം Maxwell's equation അതിനാൽ എനിക്ക് E→ അറിയാമെങ്കിൽ എനിക്ക് H→ ലഭിക്കുമോ അതിനാൽ ϕ എന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് H→ പ്രകടിപ്പിക്കാൻ കഴിയും അതിനാൽ നമുക്ക് ഇത് ഇവിടെ എഴുതാം എനിക്ക് xˆ yˆ zˆ എന്നിവ ഉണ്ട് E→ യുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ് കൂടാതെ ϕ r ന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും അത് xy ന്റെ ഫംഗ്ഷനാണ് z ൻറെ അല്ല അതിനാൽ ഏത് ഘടകമാണ് ഇവിടെ നിലനിൽക്കുന്നത് നമുക്ക് xˆ ഘടകം നോക്കാം അപ്പോൾ xˆ ഘടകം ആയിരിക്കുമോ y ഘടകം − ∂ϕ∂x ഉം z ഘടകം 0 ഉം ആയിരിക്കും അതിശയിക്കാനില്ല അതിന്റെ z കേൾൻറെ ഒരു വെക്ടർ ഉപയോഗിച്ചാണ് ഞാൻ ആരംഭിച്ചത് x y പ്ലെയ്നിൽ എന്തെങ്കിലും വേണം അതിനാൽ ഇതാണ് എന്റെ സമവാക്യം അതിനാൽ ഇവിടെ നിന്ന് H→ എന്തായിരിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയും H ആയിരിക്കും അതിനാൽ ഞാൻ ഇത് ഇവിടെ നിന്ന് മാറ്റട്ടെ അതിനാൽ H→ jωμ0∂ϕ∂y− ∂ϕ∂x0 അതിനാൽ ഘട്ടം 1 ൽ എനിക്ക് മാഗ്നെറ്റിക് ഫീൽഡ് ലഭിച്ചു അടുത്തതായി എനിക്ക് എന്താണ് വേണ്ടത് ടാൻജൻഷ്യൽ ഘടകങ്ങൾ നടപ്പിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉപരിതലത്തെക്കുറിച്ച് എനിക്കെന്തറിയാം ഉപരിതലത്തിൽ എനിക്ക് എന്താണ് നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥി നോർമൽ വെക്ടർ നോർമൽ വെക്ടർ അതിനാൽ എനിക്ക് നോർമൽ വെക്ടർ അറിയാമെന്ന് കരുതുക അതിനാൽ എനിക്ക് H→ എന്ന് എഴുതാം അങ്ങനെ H→tan H→normal എനിക്ക് പ്ലെയിൻ ഇൻറെ ഏത് വെക്റ്ററും ഒരു സാധാരണ ഘടകത്തിന്റെയും ടാൻജൻഷ്യൽ ഘടകത്തിന്റെയും അടിസ്ഥാനത്തിൽ തകർക്കാൻ കഴിയും എനിക്ക് അത് ചെയ്യാൻ കഴിയും അതിനാൽ അത് എന്നോട് പറയുന്നത് H→tan ടാൻജൻഷ്യൽ ദിശയിലായിരിക്കും എനിക്ക് അത് H→total − H→normal എന്ന് എഴുതാം ടാൻജൻഷ്യൽ ഫീൽഡ് ഫീൽഡിന്റെ സാധാരണ ഘടകം എങ്ങനെ എഴുതാം നമുക്ക് H→ ന്റെ ഡോട്ട് പ്രോഡക്ട് nˆ എടുക്കാം ഇത് H→ − H→ · nˆnˆ എന്ന് എഴുതാം അതിനാൽ ഇവിടെയുള്ള ഈ പദമാണ് ഞാൻ അതിർത്തിയിൽ നടപ്പിലാക്കേണ്ടത് അതിനാൽ ഇത് അൽപ്പം സങ്കീർണ്ണമാണെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ മാഗ്നെറ്റിക് ഫീൽഡ്ന്റെയും ഉപരിതലത്തിൻറെ നോർമൽൻറെയും അടിസ്ഥാനത്തിൽ ടാൻജൻഷ്യൽ ഫീൽഡ് എക്സ്ട്രാക്റ്റു ചെയ്തു അതിനാൽ നമുക്ക് ഇപ്പോൾ ഇത് കണക്കാക്കാൻ ശ്രമിക്കാം നമുക്ക് നോക്കാം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഇത് ഇവിടെ പകരം വയ്ക്കാം അപ്പോൾ ഇത് എന്തായിരിക്കും അതിനാൽ നമുക്ക് സാധാരണ വെക്റ്ററിനെ nxny0 ആയി എഴുതാം നമുക്ക് ഈ jωμ0 പൊതുവായി നിലനിർത്താം ഇവിടെയുള്ള ആദ്യത്തെ ഘടകം അപ്പോൾ അത് എന്തായിരിക്കും ഈ പദം ഇവിടെ എടുക്കാൻ ഞാൻ അനുവദിക്കും ഇത് എനിക്ക് ∂ϕ∂y H→ · nˆnˆ നൽകാൻ പോകുന്നു അതിനാൽ നമുക്ക് ആദ്യം H→ · nˆ എഴുതാം അപ്പോൾ H→ · nˆ എനിക്ക് jωμ0 തരാൻ പോകുന്നു മറ്റെന്താണ് എന്താണ് H→ · nˆ ഇവിടെയുള്ള H→ ഇവിടെയുള്ള nˆ എന്നിവയുടെ ഡോട്ട് ഉൽപ്പന്നമാണിത് അതിനാൽ x ഘടകം x കൊണ്ട് ഗുണിക്കുന്നു y ഘടകം y കൊണ്ട് ഗുണിക്കുന്നു 0 എന്നത് 0 ആണ് അതിനാൽ ഇതൊരു സ്കെയിലർ ആണ് ഇത് എന്റെ H→ · nˆ ആണ് H→ · nˆ nx ∂ϕ∂y − ny ∂ϕ∂x എന്നിട്ട് ഞാൻ ഈ സ്കെയിലർ എടുത്ത് വലതുവശത്ത് nˆ ദിശയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു ഇതുവരെ എന്നോടൊപ്പം എല്ലാവരും ഉണ്ട് അടുത്തതായി ഇവിടെയുള്ള അതേ ഘടകം nx ന്റെയും ny യുടെയും കൂടെ ഗുണിക്കുക അതിനാൽ ഞാൻ ഇവിടെ nx ഭാഗം എഴുതുമ്പോൾ ഇവിടെ മൊത്തം Htan ന്റെ x ഘടകം എഴുതുമ്പോൾ എനിക്ക് എന്ത് ലഭിക്കും അതിനാൽ ഇത് H→ ൽ നിന്നാണ് വരുന്നത്

y ഘടകം എനിക്ക് നൽകാൻ പോകുന്നു − ∂ϕ∂x − nynx ∂ϕ∂y − ny ∂ϕ∂x അതിനാൽ പ്രതീക്ഷിച്ച ലൈനുകളിൽ എനിക്ക് ഒരു x ഘടകം അല്ലെങ്കിൽ y ഘടകം ഉള്ള കുറച്ച് വെക്റ്റർ ലഭിച്ചു z ഘടകം ശരിയല്ല അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനാൽ ഞാൻ എപ്പോഴും ഇത് എഴുതുന്നു nˆ അതായത് അതിന്റെ യൂണിറ്റ് വെക്റ്റർ അപ്പോൾ അത് എന്നോട് എന്താണ് പറയുന്നത് ഏത് ബന്ധത്തിലും nx2 ny2 1 ആണ് അതിനാൽ ഇവ നോക്കൂ ഈ രണ്ട് പദങ്ങളും ഇവിടെ നോക്കൂ എങ്ങനെയെങ്കിലും സംയോജിപ്പിക്കാം 1 − nx2 എന്തെങ്കിലും അങ്ങനെ അത് ny2 ആയി മാറുന്നു പിന്നെ മറ്റൊരു പദത്തിന്റെ കാര്യമോ രണ്ടാം ടേമിന് എന്ത് സംഭവിക്കും വീണ്ടും ഇതും ഇതും nx2∂ϕ∂x എന്ന് എഴുതാം എനിക്ക് എന്ത് ലഭിക്കും H→tan H→ − H→ · nˆnˆ ny2∂ϕ∂y nxny∂ϕ∂x nx2∂ϕ∂x − nxny∂ϕ∂y 0 വിദ്യാർത്ഥി മൈനസ് ഇത് മൈനസ് ശരിയായിരിക്കും കൂടാതെ nxny പദം ഇതായിരിക്കുമോ ഇവിടെ വീണ്ടും ഇപ്പോഴും വളരെ നേരായതായി തോന്നുന്നില്ല എനിക്ക് പൊതുവായ എന്തെങ്കിലും എടുക്കാമോ എനിക്ക് ഇത് നോക്കാമോ ആദ്യ പദത്തിന് രണ്ട് പദങ്ങളിലും ny ഉണ്ട് രണ്ടാമത്തെ ടേമിന് രണ്ട് പദങ്ങളിലും nx ഉണ്ട് എന്താണ് ∇ϕ · nˆ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും നമുക്ക് അത് ഇവിടെ എഴുതാം ∇ϕ · nˆ നിങ്ങൾ അത് nx∂ϕ∂x ny∂ϕ∂y എന്ന് എഴുതും ഈ പദപ്രയോഗത്തിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ആ പദം നിരീക്ഷിക്കുന്നുണ്ടോ അത് അവിടെ തന്നെയുണ്ട് അത് H→tan H→ − H→ · nˆnˆ ny∇ϕ · nˆ − nx∇ϕ · nˆ0 അന്തിമ കൃത്രിമത്വം ഇത് എങ്ങനെ കാണപ്പെടുന്നു പൊതുവായ എന്തെങ്കിലും ഉണ്ട് അത് ∇ϕ · nˆ ഇത് ഡോട്ട് പ്രോഡക്ട് പോലെയാണോ ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു ഡോട്ട് പ്രോഡക്ട് ആയി കരുതുക ഒരു ടാൻ ഉണ്ട് അതിനാൽ nˆ ആണെങ്കിൽ nxny0 ടാൻജൻഷ്യൽ ഫീൽഡിനെക്കുറിച്ച് എനിക്ക് എന്ത് പറയാൻ കഴിയും വിദ്യാർത്ഥി മൈനസ് − nynx0 അതൊരു ടാൻജൻഷ്യൽ ഫീൽഡാണ് കാരണം ഇതിന്റെ ഡോട്ട് പ്രോഡക്ട് നോക്കൂ ഇതിന്റെ ഡോട്ട് പ്രോഡക്ട് എന്താണ് വിദ്യാർത്ഥി 0 0 അല്ലേ അതിനാൽ ഇതൊരു ടാൻജൻഷ്യൽ ഫീൽഡാണ് ഇപ്പോൾ ഈ വ്യക്തിയെ ഇവിടെ കാണുകയും ഈ പ്രയോഗം ഇവിടെ കാണുകയും ചെയ്തതിനാൽ നമുക്ക് ഇത് കൂടുതൽ ലളിതമാക്കാമോ നമുക്ക് ഇത് ∇ϕ · nˆ− nynx0 എന്ന് എഴുതാമോ അത് ഒന്നുമല്ല എന്നാൽ ∇ϕ · nˆ ˆt വിദ്യാർത്ഥി H ടാൻജൻഷ്യൽ നമുക്ക് H ടാൻജൻഷ്യൽ ഫീൽഡ് കണ്ടെത്തി അതിനാൽ എനിക്ക് ലഭിച്ചത് ഇതാണ് H→tan jωμ0∇ϕ · nˆˆt ഇവിടെയെത്താൻ നമുക്ക് കുറച്ച് ജോലികൾ ചെയ്യേണ്ടതുണ്ട് പക്ഷേ ക്ഷമയോടെ നമുക്ക് ജോലിയേയുള്ളൂ ഇത് വെക്ടറുകൾ വെച്ച് ക്രോസ് പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്ട് എന്നിവ ചെയ്യുക എന്നതാണെന്ന് ഇപ്പോൾ അവസാനമായി നമുക്ക് പറയാം അതിനാൽ ഇതാണ് ടാൻജൻഷ്യൽ ഫീൽഡ് ഇത് അതിർത്തിയിൽ സംരക്ഷിക്കപ്പെടണം ഇത് എന്താണ് നമ്മോട് പറയുന്നത് അതിനാൽ എസ്സിൽ ∇ϕ1 · nˆ ∇ϕ2 · nˆ എന്ന് ഇത് നമ്മോട് പറയുന്നു അതിനാൽ നമ്മൾ ചെയ്തത് മാഗ്നെറ്റിക് ഫീൽഡ് ആണ് നമ്മൾ ആരംഭിച്ചത് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളിൽ Maxwells equations നിന്നാണ് ഇത് E→ എന്നതിന്റെ അടിസ്ഥാനത്തിൽ H→ പ്രകടിപ്പിക്കാൻ നമ്മളെ അനുവദിച്ചു അതിനാൽ എനിക്ക് H→ എന്നതിന് ഒരു പദപ്രയോഗം ലഭിച്ചു എനിക്ക് H→ എന്നതിന്റെ എക്സ്പ്രഷൻ ലഭിച്ചപ്പോൾ എനിക്ക് H→tan നൽകുന്ന എക്സ്പ്രഷൻ ലഭിക്കാൻ ശ്രമിക്കുന്നതായി ഞാൻ കണ്ടെത്തി ഗ്രാഡ് ഫൈയുടെയും ടാൻജെൻഷ്യൽ ഫീൽഡിന്റെയും അടിസ്ഥാനത്തിൽ ഇത് എഴുതാൻ എനിക്ക് മതിയായ അളവിൽ ആൾജിബ്ര ചെയ്യേണ്ടിവന്നു അതാണ് എനിക്ക് ഇവിടെ ലഭിച്ചത് അത് തുല്യമായിരിക്കണമെന്നും അതാണ് എനിക്ക് ഈ അതിർത്തി വ്യവസ്ഥ നൽകിയതെന്നും ഞാൻ പറയുന്നു അതിനാൽ ഇത്തരത്തിലുള്ള ടെറിവേഷൻ നിങ്ങൾ ആദ്യമായി കാണുമ്പോൾ ഇത് അൽപ്പം ഭയപ്പെടുത്തുന്നതായി തോന്നുന്നു പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിലായി ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് ആവർത്തിക്കുന്നു പ്രശ്നത്തിന്റെ അതിരിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നും ഇത് കൃത്രിമത്വം ചെയ്യാമെന്നും നിങ്ങൾ എന്നോട് പറയുന്നിടത്തോളം നമ്മൾ ഉപരിതലത്തെ പൂർണ്ണമായും പൊതുവായി നിലനിർത്തി എന്നത് ശ്രദ്ധിക്കുക എനിക്ക് ഇത് ശരിയാക്കാൻ കഴിയും പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ചതുരാകൃതിയിലുള്ള അതിർത്തിയോ വൃത്താകൃതിയിലുള്ള അതിരുകളോ പോലെ എനിക്ക് ആവശ്യമില്ല അതിനാൽ ഇവയാണ് സമവാക്യങ്ങളുടെ അവസാന കൂട്ടങ്ങൾ നമുക്കുള്ള അജ്ഞതങ്ങൾ ഇവിടെ അവസാനിച്ചു ∇ϕ · nˆ ഉം ϕ ϕ ഉം സമാനമായി ഇവിടെ അതിനാൽ ഇവ 2 സമവാക്യങ്ങളാണ് 2 വേരിയബിളുകൾ അതിനാൽ ഇത് ഏത് തരത്തിലുള്ള അവിഭാജ്യ സമവാക്യമാണെന്ന് നിങ്ങൾ കരുതുന്നു നമ്മൾ വിവിധ തരം ഇന്റഗ്രൽ സമവാക്യങ്ങൾ പഠിച്ചു ഇത് ഒരു ചെറിയ വ്യതിയാനമാണ് അപ്പോൾ ഇത് ഒരു ഫ്രെഡ്ഹോം അല്ലെങ്കിൽ വോൾട്ടേറ പോലെയാണോ ഫ്രെഡ്ഹോം കാരണം സംയോജനത്തിന്റെ പരിധികൾ അജ്ഞാതമാണ് അതിനാൽ അത് ഏത് തരത്തിലുള്ളതാണ് ആദ്യത്തേതോ രണ്ടാമത്തെതോ ആയ തരത്തിൽ അജ്ഞാതമായത് ഇന്റഗ്രൽ സൈനിന്റെ അകത്തും പുറത്തും ആണോ വിദ്യാർത്ഥി അകത്ത് ഉള്ളിൽ മാത്രം അതിനാൽ നമുക്ക് ഒന്നാം തരം എന്ന് പറയാം എന്നാൽ അതിൽ വ്യത്യസ്തമായത് എനിക്ക് 2 വേരിയബിളുകൾ ഉണ്ട് എന്നതാണ് അതിനാൽ ഇവ യഥാർത്ഥത്തിൽ സമവാക്യങ്ങളുടെ കപ്പിൾഡ് സിസ്റ്റമാണ് ഇത് 1 സമവാക്യവും 1 വേരിയബളും അല്ല 2 സമവാക്യങ്ങളും 2 വേരിയബിളുകളും അല്ല 2 വേരിയബിളുകളിലെ ഫ്രെഡ്ഹോം ഇന്റഗ്രൽ സമവാക്യങ്ങളുടെ കപ്പിൾഡ് സെറ്റാണ് ഇവ രണ്ട് ലളിതമായ സമവാക്യങ്ങൾ വിവരിക്കാൻ നിരവധി നാമവിശേഷണങ്ങൾ നമ്മൾ ഇത് എങ്ങനെ പരിഹരിക്കും യഥാർത്ഥത്തിൽ ഈ സമവാക്യങ്ങൾ പരിഹരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വലിയ നിഗൂഢതയൊന്നുമില്ല പ്രക്രിയ എന്താണെന്ന് നമുക്ക് ഇതിനകം അറിയാം നമ്മൾ ആവർത്തിക്കുന്നു മുമ്പത്തെ പ്രശ്നത്തിൽ നമ്മൾ ഇത് ചെയ്തു അതിനാൽ നിങ്ങൾ ആദ്യം എന്തുചെയ്യും നിങ്ങൾ അത് പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് സമവാക്യവും നിങ്ങൾ അത് ശരിയായി വ്യതിരിക്തമാക്കുന്നത് എന്താണ് അതിനാൽ നമ്മൾ ഒരു വിവേചനാധികാരം നടത്തും പിന്നെ എന്താണ് മറ്റൊരു പ്രധാന തിരഞ്ഞെടുപ്പ് അടിസ്ഥാന ഫംഗ്ഷനുകൾ എനിക്ക് അടിസ്ഥാന ഫംഗ്ഷനുകൾ തിരഞ്ഞെടുത്ത് സമവാക്യങ്ങളുടെ സിസ്റ്റം പരിഹരിക്കേണ്ടതുണ്ട് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഭാഗങ്ങൾ എന്താണ് ഇവർ എന്താണ് ഇവർ അതിനാൽ അത് ഗ്രീനിന്റെ Green's പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു മൊഡ്യൂളായിരിക്കും അതിനാൽ ഈ സമവാക്യങ്ങൾ മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായത് എങ്ങനെയാണ് കപ്പിൾഡ് സ്വഭാവം കാരണം കൂടാതെ ഇവ അതിർത്തി അവിഭാജ്യങ്ങളുമാണ് മുമ്പ് നമ്മൾ ഉദ്ദേശിച്ചത് വോളിയം നമ്മൾ സെഗ്മെന്റുകളായി മുറിച്ചു അതിനാൽ ഇവയാണ് സമവാക്യങ്ങളുടെ അവസാന സെറ്റുകൾ ഇത് പരിഹരിക്കുന്നത് നമുക്ക് ഗ്രാഡ് ഫൈ ഡോട്ട് എൻ ഹാറ്റ് ഫി 1 പകരക്കാരനെ നൽകുന്നു അത് ഹ്യൂഗൻസ് തത്വത്തിലേക്ക് മടങ്ങുന്നു എനിക്ക് എവിടെയും ഫീൽഡ് ലഭിക്കും അതാണ് അടിസ്ഥാന ആശയം ഇത് വ്യക്തമാണ് അതിനാൽ നമുക്ക് എങ്ങനെ ചെയ്യാം ഈ ഗ്രേഡ് വിശദാംശം എങ്ങനെ പരിഹരിക്കും എന്നതിനെ കുറിച്ച് പോകുക നമുക്ക് അവയെ വേർപെടുത്തേണ്ട ആവശ്യമില്ല സമവാക്യങ്ങളുടെ ഒരു രേഖീയ സംവിധാനം ഉണ്ടാക്കുന്നതിനാൽ നമുക്ക് അവ പരിഹരിക്കാൻ കഴിയും കൂടാതെ അത് Ax b ആയി പരിഹരിക്കുക അങ്ങനെയാണ് അത് പരിഹരിക്കുക നിങ്ങൾ വേരിയബിളുകളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല എന്നതുപോലെ ഈ സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിൽ അത് വളരെ ആകർഷകമല്ല അതിനാൽ അവ വേർപെടുത്തുന്നതോ ആവശ്യമില്ലാത്തതോ ആയ മറ്റ് ചില ഡൊമെയ്നുകൾ അടിസ്ഥാന ഫംഗ്ഷനുകൾ തിരിച്ചറിയുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ഈ നിബന്ധനകൾ വിലയിരുത്തുന്നതിന് ഒരുപാട് ജോലികൾ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സൂചന തരാം എന്തായിരിക്കും വെല്ലുവിളി ഈ അതിർത്തിയിൽ പ്രൈംഡ് അല്ലെങ്കിൽ അൺപ്രൈംഡ് ഇന്റഗ്രേഷൻ എന്ന നിങ്ങളുടെ വേരിയബിൾ എന്താണ് വിദ്യാർത്ഥി അൺപ്രൈംഡ് പ്രൈം അവ r r′ എല്ലാം ശരിയാകുന്ന പോയിന്റുകളായിരിക്കും കൂടാതെ r r′ g1 ന്റെ നിർവചനത്തിലേക്ക് മടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും ഡെൽറ്റ ഫംഗ്ഷൻ r r′ ൽ ഇരിക്കുന്നുണ്ടോ അതിനാൽ ഇത് അവിടെ ഏകത്വമാണ് അതിനാൽ ഒരു ഏകത്വത്തിന്റെ സാന്നിധ്യത്തിൽ ഈ ഇന്റഗ്രലുകളുടെ മൂല്യനിർണ്ണയം നമ്മൾ നടത്തേണ്ടതുണ്ട് അതിനാൽ അവിടെ കുറച്ച് ശ്രദ്ധാപൂർവമായ ജോലി ആവശ്യമാണ് ബാക്കിയുള്ളത് ലളിതമാണ് പക്ഷേ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ അത് വളരെ വിശദമായി പരിഹരിക്കും